എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 ലെ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഇത് പ്രഭാഷണ നമ്പർ 10 ആണ് നമ്മൾ സംസാരിക്കുന്നത് ഹയർ ഓർഡറിന്റെ ഭാഗിക ഡെറിവേറ്റീവുകളെക്കുറിച്ചാണ് അവസാന പ്രഭാഷണത്തിൽ f ന്റെ ഭാഗിക ഡെറിവേറ്റീവുകൾ നമ്മൾ കണ്ടു അടിസ്ഥാനപരമായി അവസാന പ്രഭാഷണത്തിൽ നമ്മൾ ചെയ്ത ആദ്യ ഓർഡർ ഭാഗിക ഡെറിവേറ്റീവുകൾ അപ്പോൾ എന്തായിരുന്നു പോയിന്റിലെ x നെ സംബന്ധിച്ച ഭാഗിക ഡെറിവേറ്റീവിന്റെ അടിസ്ഥാന നിർവചനമായിരുന്നു ഇത് x0 ലെ വർദ്ധനവ് നമ്മൾ എടുക്കുന്നതിനാലാണ് അല്ലെങ്കിൽ x നെ സംബന്ധിച്ച ഭാഗിക ഡെറിവേറ്റീവുകളെക്കുറിച്ചും ഡെൽറ്റ x ഇൻക്രിമെന്റിനാൽ വിഭജിച്ചിരിക്കുന്ന ഫംഗ്ഷൻ മൂല്യത്തെക്കുറി ച്ചും ഈ ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ ഈ ലിമിറ്റ് എടുക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു ആദ്യ ഓർഡർ ഭാഗിക ഡെറിവേറ്റീവായ x നോട് അനുബന്ധിച്ച് നമ്മൾക്ക് ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ട്

അതുപോലെ തന്നെ ഈ ലിമിറ്റ് നിലനിൽക്കുമ്പോൾ ഈ ഘട്ടത്തിൽ x0 y0 y യുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഓർഡർ ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇത് ഉയർന്ന ഓർഡർ ഡെറിവേറ്റീവുകൾക്കായി തുടരും x നെ സംബന്ധിച്ച് f ന്റെ ഡെറിവേറ്റീവ് രണ്ട് തവണ എടുത്താൽ എന്ത് സംഭവിക്കും ഈ സാഹചര്യത്തിൽ ഇത് നൊട്ടേഷൻ ആണ് x നോടനുബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ട് ഉദാഹരണത്തിന് x നോടൊപ്പം ഭാഗിക ഡെറിവേറ്റീവ് വീണ്ടും എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു x നെ സംബന്ധിച്ച് ഈ ഭാഗിക ഡെറിവേറ്റീവ് ഉള്ളതിനാൽ ആശയം അതേപടി തുടരുന്നു ഇത് മറ്റൊരു ഫംഗ്ഷനാണ് തുടർന്ന് ഈ ഫംഗ്ഷന്റെ x നെ സംബന്ധിച്ച് നമ്മൾ ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുന്നു അടിസ്ഥാനപരമായി ഇത് ∂ ∂x പോലെയാണ് അതിനുശേഷം നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട് അതിനെ ഞാൻ fx എന്ന് വിളിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഒരു ഭാഗിക ഡെറിവേറ്റീവുകളുടെ നൊട്ടേഷൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ ഫംഗ്ഷന്റെ ഭാഗിക ഡെറിവേറ്റീവുകളാണ് fx എടുക്കുന്നത് നമ്മൾ ഇതിനകം തന്നെ പഠിച്ച അതേ നിർവചനം ഈ ലിമിറ്റ്യെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനാൽ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ fx ഉദാഹരണത്തിന് നമ്മൾ x0 y0 പോയിന്റുകൾ എടുക്കുകയാണെ ങ്കിൽ x നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ x ൽ ഒരു വർദ്ധനവ് വരുത്തും തുടർന്ന് y0 നിലനിൽക്കും തുടർന്ന് നമുക്ക് fxx0 y0 ൽ ഉണ്ട് ഈ Δx കൊണ്ട് ഹരിക്കുന്നു x നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവിന്റെ നിർവചനം അതായിരിക്കും ഇവിടെ വീണ്ടും നൊട്ടേഷൻ ഇതിനുപകരം x നെ സംബന്ധിച്ച് f ന്റെ ഡെറിവേറ്റീവ് രണ്ട് തവണയും ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഈ നൊട്ടേഷനും ഉപയോഗിക്കുന്നു രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് x നെ സംബന്ധിച്ച് ഒരു ഭാഗിക f ന്റെ ഡെറിവേറ്റീവ് അതുപോലെ x ന്റെ ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് y നോട് അനുബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് നൊട്ടേഷൻ ഉണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ നൊട്ടേഷൻ fyx അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു ചില സാഹിത്യങ്ങളിൽ ആളുകൾ ഇത് fyx അല്ലെങ്കിൽ ∂x∂y ന് ചുറ്റുമുള്ള മറ്റേതെങ്കിലും മാർഗമായി ഉപയോഗിക്കുന്നു x നോടനുബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവ് ഈ നൊട്ടേഷൻ നമ്മൾ പിന്തുടരും തുടർന്ന് y നെ സംബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവ് വീണ്ടും എടുക്കും ഈ ഓർഡർ നമ്മൾ ഇവിടെ yx fyx എന്നിവയിൽ സൂക്ഷിക്കും ഇതിനർത്ഥം ആദ്യത്തെ മൂന്ന് ഭാഗിക ഡെറിവേറ്റീവ് x നോടും പിന്നീട് y നോടും കൂടിയാണ് y യുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ ഭാഗിക ഡെറിവേറ്റീവിന് സമാനമായ നൊട്ടേഷൻ ഇവിടെ x നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കും fyy അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആദ്യം y യുമായി ബന്ധപ്പെട്ട് ഭാഗിക ഡെറിവേറ്റീവ് പോലെയാകാം തുടർന്ന് x നെ സംബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവ് എടുക്കാം ഇതിനെ നമ്മൾ fxy അല്ലെങ്കിൽ എന്ന് സൂചിപ്പിക്കും ഇത് വെറും നൊട്ടേഷൻ മാത്രമാണ് ഇവിടെ ഈ ഡെറിവേറ്റീവുകളെ fxy അല്ലെങ്കിൽ fyx നെ മിക്സഡ് ഡെറിവേറ്റീവുകൾ എന്ന് വിളിക്കുന്നു കാരണം ഇവിടെ നമ്മൾ x എന്ന വേരിയബിളുകളും പിന്നീട് y യുമായി അല്ലെങ്കിൽ ആദ്യം y നെ സംബന്ധിച്ചും x നെ സംബന്ധിച്ചും ഉപയോഗിച്ചു അതിനാൽ ഇവയെ മിക്സഡ് ഡെറിവേറ്റീവുകൾ എന്ന് വിളിക്കുന്നു ഈ ഫംഗ്ഷന് 00 യിൽ ഈ മിശ്രിത ഡെറിവേറ്റീവ് എന്നിവ നേരിട്ട് കണക്കുകൂട്ടാം

എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതുപോലെ y യുമായി ബന്ധപ്പെട്ട് ഭാഗിക ഡെറിവേറ്റീവിന്റെ x നെ സംബന്ധിച്ച ഭാഗിക ഡെറിവേറ്റീവ് എന്നാണ് അർത്ഥമാക്കുന്നത് ചുരുക്കത്തിൽ നമുക്ക് ഇത് fy പോലെ സൂചിപ്പിക്കാൻ കഴിയും നമ്മൾക്ക് ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ട് x നെ സംബന്ധിച്ച് x നോടനുബന്ധിച്ച് ഈ യുടെ ഭാഗിക ഡെറിവേറ്റീവ് നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ x y എന്നിവയുടെ ഒരു ഫംഗ്ഷൻ കൂടിയാണെന്ന കാര്യം ശ്രദ്ധിക്കുക x നെ സംബന്ധിച്ച് ഈ ഭാഗിക ഡെറിവേറ്റീവിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം x നോടനുബന്ധിച്ച് വീണ്ടും നിർവചനം അനുസരിച്ച് x നെ സംബന്ധിച്ച് ഒരു ഭാഗിക ഡെറിവേറ്റീവ് നമ്മൾ Δx → 0 എന്ന ലിമിറ്റ് എടുക്കും ഫംഗ്ഷൻ നമ്മൾ 00 യിൽ ഡെറിവേറ്റീവിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ 0 0 നിങ്ങൾക്ക് ഉണ്ട് X നെ സംബന്ധിച്ചിടത്തോളം ഭാഗിക ഡെറിവേറ്റീവുകളുടെ അതേ നിർവചനം അതിനാൽ f എന്നതിനുപകരം നമ്മൾ ഇവിടെ ഉപയോഗിച്ചു കാരണം ഫംഗ്ഷന്റെ x നോട് അനുബന്ധിച്ച് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ Δx 0 എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ Δx 0 ഉപയോഗിക്കാൻ കഴിയൂ 00 എന്താണെന്നും നാം അറിഞ്ഞിരിക്കണം നമുക്ക് ഇവിടെ ആ മൂല്യം ഉപയോഗിക്കാനും ഈ മിക്സഡ് ഓർഡർ ഭാഗിക ഡെറിവേറ്റീവ് കണക്കാക്കാനും കഴിയും Δx 0 എന്താണെന്ന് നമുക്ക് കണക്കാക്കാം x 0 ഇപ്പോൾ ഇവിടെ ഇത് y നെ സംബന്ധിച്ച് ഒരു ഭാഗിക ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾ f ഫംഗ്ഷൻ എന്നിവയുടെ നിർവചനം ഉപയോഗിക്കണം ഇപ്പോൾ നമ്മൾ f ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു പക്ഷേ y യുമായി ബന്ധപ്പെട്ട ഭാഗിക ഡെറിവേറ്റീവ് ഇൻക്രിമെന്റ് y ആർഗ്യുമെന്റിൽ ആയിരിക്കണം f Δx 0 അതിനാൽ നമ്മൾ Δx തൊടാത്തതിനാൽ Δx നിലനിൽക്കും Y നെ സംബന്ധിച്ച് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു ഈ Δx നിലനിൽക്കും ഇവിടെ 0 Δy ഞാൻ എഴുതുന്നത് Δy മൈനസ് എഫ് ഫംഗ്ഷൻ മൂല്യം Δx 0 അതിനാൽ Δx 0 എന്നിട്ട് byy കൊണ്ട് ഹരിക്കുന്നു കാരണം നമ്മൾ ഡെറിവേറ്റീവ് Δy യുമായി എടുക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ f Δx 0 കണക്കാക്കിയാൽ ഇപ്പോൾ അവിടെ പകരം വയ്ക്കണം അപ്പോൾ നമുക്ക് ഉണ്ട് ഇത് Δx ആണ് ഇപ്പോൾ നമ്മൾ f y 00 കണക്കാക്കണം എന്താണ് f y 00 f y 00 വീണ്ടും നിർവചനം ഉപയോഗിക്കണം Δy → 0 എന്നിട്ട് നമുക്ക് f എന്ന ഫംഗ്ഷന്റെ ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുന്നു 0 0 ആയി തുടരും ഇവിടെ നമുക്ക് മൈനസ് ഈ f 00 ഉണ്ട് കൊണ്ട് ഹരിക്കുന്നു ഈ ലിമിറ്റ് Δy → 0 ഈ ഒരു വാദം 0 ആണ് നമ്മൾക്ക് പ്രോഡക്റ്റ്ണ്ട് ഇത് 0 ഉം മൈനസ് f 00 0 ഉം നൽകുകയും Δy ആകുകയും ചെയ്യും ഇത് 0 ആയിരിക്കും 00 എന്നതിലെ y യുമായി ബന്ധപ്പെട്ട ഭാഗിക ഡെറിവേറ്റീവ് 0 ആണ് ഇത് ഇവിടെ 0 ആണ് നമുക്ക് ഇവ രണ്ടും ലഭിച്ചു fy Δx 0 Δx ഇവിടെ fy 0 0 0 നമുക്ക് ഇപ്പോൾ പകരം വയ്ക്കാം നമ്മൾക്ക് ഈ ലിമിറ്റ് 1 ആയി ഉണ്ട് ഈ ഭാഗത്തിന്റെ മിശ്രിത ഓർഡറിന്റെ ഭാഗിക ഡെറിവേറ്റീവ് നമ്മൾക്ക് ലഭിച്ചു അതുപോലെ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓർഡർ ഭാഗിക ഡെറിവേറ്റീവിനെ y യുമായി ബന്ധപ്പെട്ട് x മായി കണക്കാക്കും ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഇപ്പോൾ ഓർഡർ ഉണ്ട് അതായത് ഫംഗ്ഷന്റെ y യുമായി ബന്ധപ്പെട്ട ഭാഗിക ഡെറിവേറ്റീവ് ഈ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും നിർവചനം ഉപയോഗിക്കുന്നു Δy → 0 ഇത് Δy നമ്മൾക്ക് ഈ ഫംഗ്ഷൻ ഉണ്ട്

ഇപ്പോൾ മുമ്പത്തെ സ്ലൈഡിലെന്നപോലെ മുമ്പത്തെ എന്നതിനുപകരം ഈ 0 y 0 0 എന്നിവ കണക്കാക്കണം ഇവിടെ എന്താണ് ഈ ഡെറിവേറ്റീവ് വീണ്ടും ലിമിറ്റ് Δx ആയിരിക്കണം കാരണം x f എന്നിവയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു

ഇവിടെ ഇത് വീണ്ടും ആയിരിക്കും ഈ പദം തുടർന്ന് നമുക്ക് Δx ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ Δx ഉം Δx ഉം റദ്ദാക്കപ്പെടും നമ്മൾ ലിമിറ്റ് എടുക്കുന്നു Δx 0 ഈ പദം 0 ലേക്ക് പോകുകയും ഈ പദം 0 ലേക്ക് പോകുകയും നമ്മൾ എപ്പോൾ ഇവിടെയെത്തുകയും ചെയ്യും അത് Δy ആയിരിക്കും ഇപ്പോൾ ഇവിടെ ഈ ഡെറിവേറ്റീവ് Δy തുടർന്ന് 00 എന്നിവയാണ് ഈ 00 ഈ നിർവചനം നമ്മൾ വീണ്ടും ഉപയോഗിക്കണം ലിമിറ്റ് തുടർന്ന് നമുക്ക് ഉണ്ട് ഇവിടെ ഒരു ആർഗ്യുമെന്റ് 0 ആയതിനാൽ ഈ പ്രോഡക്റ്റ് കാരണം ഇത് ഉം ലിമിറ്റ് Δx → 0 ഉം ആയി മാറും നമുക്ക് ഇത് വീണ്ടും ഇവിടെ 0 ഉണ്ട് നമ്മൾക്ക് ഇത് 0 ലഭിച്ചു ഇപ്പോൾ നമ്മൾ ഇവിടെ പകരം വയ്ക്കും ഈ ലിമിറ്റ് ഈ Δy എന്നിവ റദ്ദാക്കുകയും നമ്മൾക്ക് മൈനസ് 1 ലഭിക്കും ശ്രദ്ധിക്കുക മുമ്പത്തെ സ്ലൈഡിൽ ലഭിച്ചു ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചു ഈ രണ്ട് ഭാഗിക ഡെറിവേറ്റീവുകളും ആദ്യം y യുമായി ബന്ധപ്പെട്ട് പിന്നീട് x നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആദ്യം x നെ സംബന്ധിച്ചും പിന്നീട് y നെ സംബന്ധിച്ചും അവ തുല്യമാകണമെന്നില്ല ഈ ഇന്നത്തെ ഉദാഹരണം പോലെ ഇവിടെ മൂല്യം 1 ഉം ഇവിടെ മൂല്യം 1 ഉം ആണ് ഈ മിശ്രിത ഭാഗിക ഡെറിവേറ്റീവുകളുടെ തുല്യത സംഭവിക്കുമ്പോൾ ഈ പോയിന്റിന്റെ സമീപസ്ഥലത്ത് എന്നിവയെല്ലാം നിലവിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഈ ഘട്ടത്തിൽ മാത്രമല്ല ഈ സ്ഥലത്തിന്റെ സമീപപ്രദേശങ്ങളിലും ഇവ മൂന്നും നിലവിലുണ്ട് ഇവിടെ മുകളിൽ fyx ഉം ആ ഘട്ടത്തിൽ 0 0 തുടരും 0 അങ്ങനെയാണെങ്കിൽ fxy യും നിലനിൽക്കും എന്ന ഫലം നമുക്കുണ്ട് ഈ പോയിന്റും അത് fyx ന്റെ മൂല്യത്തിന് തുല്യമായിരിക്കും അടിസ്ഥാനപരമായി തുടർച്ച ഇവിടെ ഈ fyx ന്റെ പ്രധാന പങ്ക് വഹിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് x ന് ഈ ഫലം ചെയ്യാൻ കഴിയും xy അല്ലെങ്കിൽ മറ്റൊരു സമാന്തര ഫലം ഇവിടെയുണ്ട് ഈ fyx fxy എന്നിവ മിക്സഡ് ഡെറിവേറ്റീവുകളാണെങ്കിൽ ഓർമിക്കാൻ എളുപ്പമാണ് ഒരു തുറന്ന ഡൊമെയ്നിൽ ഈ രണ്ട് ഡെറിവേറ്റീവുകളായ fyx fxy എന്നിവ തുടരുമ്പോൾ സമത്വം സംഭവിക്കുമ്പോൾ ഡൊമെയ്നിലെ ഏത് ഘട്ടത്തിലും നമുക്ക് ഭാഗിക ഡെറിവേറ്റീവുകൾ തുല്യമാണ് ഈ മിക്സഡ് ഓർഡർ ഭാഗിക ഡെറിവേറ്റീവുകൾ തുല്യമാണ് മുമ്പത്തെ ഉദാഹരണത്തിൽ തീർച്ചയായും ആ ഭാഗിക ഡെറിവേറ്റീവുകൾ തുല്യമായിരുന്നില്ല അല്ലാത്തപക്ഷം fyx fxy ന് തുല്യമാണെന്ന് നമ്മൾക്ക് അവിടെ തുല്യത ലഭിക്കുമായിരുന്നു കാരണം ഇത് മതിയായ അവസ്ഥയാണ് ഈ ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂവസ്സായ രണ്ടാം ഓർഡർ ഭാഗിക ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂവസ്സാണെങ്കിൽ അവ തുല്യമായിരിക്കും ഇവിടെ നിന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താൻ കഴിയും അവർ തുല്യരല്ലെങ്കിൽ അതിനർത്ഥം ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂവസ്സായിരുന്നില്ല കാരണം ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂവസ്സായിരുന്നെങ്കിൽ അവ തുല്യമായിരിക്കണം ഈ ഡെറിവേറ്റീവുകൾ തുല്യമല്ലെങ്കിൽ ഈ മിക്സഡ് ഓർഡർ ഡെറിവേറ്റീവുകൾ തുല്യമല്ലെങ്കിൽ ഈ മിക്സഡ് ഓർഡർ ഭാഗിക ഡെറിവേറ്റീവുകൾ ഭാഗിക ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂവസ്സായിരിക്കി ല്ലെന്ന് നമുക്ക് നിഗമനം ചെയ്യാം ഈ ഉദാഹരണത്തിൽ നമുക്ക് നോക്കാം ഈ പ്രശ്നത്തിനായി നമ്മൾ ആദ്യം f xy 0 0 f yx 0 0 എന്നിവ കണക്കുകൂട്ടും f y ഫംഗ്ഷന്റെ x മായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഓർഡർ ഭാഗിക ഡെറിവേറ്റീവ് നമ്മൾ കണക്കാക്കുന്നു നമ്മൾക്ക് നിർവചനം അനുസരിച്ച് മുമ്പത്തെ ഉദാഹരണത്തിന് സമാനമായി നമ്മൾ ഇപ്പോൾ ഈ f y Δx 0 കണക്കുകൂട്ടേണ്ടതുണ്ട് ഇത് വീണ്ടും ഇതാണ് ഇവിടെയും Δy → 0 ഉം എഫ് നമ്മൾ abouty യെക്കുറിച്ചാണ് സംസാരിക്കുന്നത് Δx മാറില്ല നമുക്ക് 0 ഉണ്ട് അപ്പോൾ നമുക്ക് f Δx 0 ഉണ്ട് byy കൊണ്ട് ഹരിക്കുന്നു ഈ ലിമിറ്റ് എന്താണ് നമ്മൾ ഇവിടെ ഈ ലിമിറ്റ് എടുത്താൽ ഇവിടെ Δy → 0 അത് ഇവിടെ നിന്ന് cx Δy ക്യൂബ് ആയി മാറും തുടർന്ന് Δx കൊണ്ട് ഹരിക്കും വീണ്ടും ഈ y 0 ആണ് ഇത് 0 ഉം ഉം ആയി മാറും ഇത് ഇവിടെ റദ്ദാക്കപ്പെടും തുടർന്ന് 0 ലേക്ക് എടുക്കുകയാണെങ്കിൽ ഇത് വീണ്ടും എഴുതാൻ നമ്മളെ അനുവദിക്കും Δy → 0 നമ്മൾക്ക് ഉണ്ട് ആയിരിക്കുമ്പോൾ ഈ പദം 0 ലേക്ക് പോകുന്നു ഇവിടെ ഇത് 0 ലേക്ക് പോകുന്നു നിങ്ങൾക്ക് ഈ ലിമിറ്റ് 0 ആയി ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇത് 0 ആണ് f y 00 നമ്മളെ ഇവിടെ കണക്കുകൂട്ടാൻ അനുവദിക്കും f y 00 ലിമിറ്റ് Δy → 0 ആണ് എന്നിട്ട് നമുക്ക് ഉണ്ട് വീണ്ടും ഈ സാഹചര്യത്തിൽ ഇത് 0 ആണ് ഇതും 0 ആണ് അതിനാൽ 0 0 ലെ ഈ ഭാഗിക ഡെറിവേറ്റീവ് 0 ആണ് ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഇത് ലഭിച്ചു 0 രണ്ടും 0 ആണ് ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഈ ഭാഗിക അല്ലെങ്കിൽ രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് 0 ആയി ലഭിച്ചു ഇപ്പോൾ നിങ്ങൾ ഈ ഫംഗ്ഷന്റെ മറ്റൊന്ന് f yx കണക്കുകൂട്ടും ഇപ്പോൾ ഈ ഫംഗ്ഷന്റെ y യുമായി ബന്ധപ്പെട്ട് y ന്റെ ഭാഗിക ഡെറിവേറ്റീവ് f x വീണ്ടും നിർവചനം y ൽ വർദ്ധനവ് വരുത്തുക ഈ ഭാഗിക ഡെറിവേറ്റീവുകളെ ഇവിടെ വീണ്ടും എന്നിവയിൽ കണക്കുകൂട്ടേണ്ടതുണ്ട് നിങ്ങൾ ഇത് ൽ കണക്കുകൂട്ടുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ട് ചെയ്യുന്നു നമുക്ക് ലിമിറ്റ് Δy → 0 ക്ഷമിക്കണം Δx → 0 ആയി എടുക്കാം Δy → 0 അല്ല ഇത് ആയിരിക്കും നമുക്ക് എഫ് യിലെ വർദ്ധനവ് ഫംഗ്ഷനായതിനാൽ ഇപ്പോൾ ഈ ഇൻക്രിമെന്റ് കൊണ്ട് ഹരിക്കുന്നു x നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗിക ഡെറിവേറ്റീവ് ആയിരിക്കും ലിമിറ്റ് ഡെൽറ്റ x 0 ലേക്ക് പോകുന്നു ഇത് ഇതായിരിക്കും ഈ Δx റദ്ദാക്കപ്പെടും ഇപ്പോൾ നമ്മൾ Δx → 0 അനുവദിക്കും ഈ പദം 0 ആയിത്തീരും നമുക്ക് ലഭിക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ഡെറിവേറ്റീവ് ഇവിടെ ലഭിക്കുന്നു നമ്മൾക്ക് ഇത് ലഭിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അതിനാൽ ഈ പ്രോഡക്റ്റ് കാരണം ഇത് 0 ആയി മാറും അതിനാൽ വീണ്ടും കണക്കുകൂട്ടേണ്ടതില്ല ഇപ്പോൾ ഇതിനായി Δy ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ Δy Δy അതിനാൽ ഇത് 1 ആയി മാറും ഈ രണ്ട് ഡെറിവേറ്റീവുകളിലെ ഈ വീണ്ടും ഈ ഉറവിടത്തിൽ തുല്യമല്ല അതിനാൽ അതിനർത്ഥം 00 എന്നതിലും അവ കണ്ടിന്യൂവസ്സായിരിക്കില്ല കാരണം ഈ ഡെറിവേറ്റീവുകൾ നിരന്തരമാണെങ്കിൽ നമുക്ക് അവിടെ തുല്യത ലഭിക്കും അവ കണ്ടിന്യൂവസ്സല്ല ഇത് ഈ രണ്ടിന്റെയും തുടർച്ച പരിശോധനയാണ് ആയിരിക്കുമ്പോൾ ഈ മിശ്രിത ഡെറിവേറ്റീവുകളും മറ്റ് സ്ഥലങ്ങളിൽ മറ്റെവിടെയെങ്കിലും ലഭിക്കുമ്പോൾ തുടർച്ച പരിശോധിക്കാൻ എന്തുചെയ്യണം ഇവിടെ x y for 00 എന്നതിനായി നമ്മൾ കണക്കുകൂട്ടുകയാണെങ്കിൽ x തുല്യമല്ലാത്തപ്പോൾ നമ്മൾ പറയും ഇവിടെ ഇതിനുപകരം എന്ന് വിളിക്കും പ്രശ്നമില്ലാത്ത ഈ ഘട്ടങ്ങളിലെല്ലാം y നെ സ്ഥിരമായി നിലനിർത്തുന്നതിലൂടെ നമുക്ക് ഈ ഡെറിവേറ്റീവ് കണക്കാക്കാം ഇവിടെ നിന്ന് x നെ സംബന്ധിച്ച് ഈ f xy ൽ നിന്ന് ഈ ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനാൽ ഇവിടെ x y2 സ്ഥിരമായ നിയമം മുഴുവൻ ചതുരവും വരും ക്ഷമിക്കണം x y2 എന്ന പദം x നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും x നോടനുബന്ധിച്ച് f ന്റെ ഭാഗിക ഡെറിവേറ്റീവ് നമുക്ക് ലഭിക്കുന്നു ഇപ്പോൾ y യുടെ കാര്യത്തിൽ ഭാഗിക ഡെറിവേറ്റീവ് വീണ്ടും കണക്കുകൂട്ടിയാൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ x സ്ഥിരമായി നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഫംഗ്ഷനെ വീണ്ടും വേർതിരിക്കും അവിടെ നമ്മൾ ചെയ്തതുതന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെയെത്തും x നെ സ്ഥിരമായി നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഈ പദം ഇവിടെ ലഭിക്കും ആയിരിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗിക ഡെറിവേറ്റീവ് fyxx y ഉണ്ട് ഇപ്പോൾ നമ്മൾ മറ്റ് പോയിന്റുകളിലും കണക്കുകൂട്ടേണ്ടതുണ്ട് ഒന്നാമതായി ഇവിടെ ഭാഗിക ഡെറിവേറ്റീവ് ആദ്യം y യുമായി കണക്കുകൂട്ടിയാൽ x നെ സംബന്ധിച്ച് നമുക്ക് മുമ്പത്തെ അതേ അളവ് ലഭിക്കും കാരണം വ്യക്തമാണ് കാരണം നമുക്ക് ഈ നല്ല ഫംഗ്ഷൻ ഉണ്ട് അത് തീർച്ചയായും കണ്ടിന്യൂവസ്സായിരിക്കുമ്പോൾ നമുക്ക് അത് തെളിയിക്കാൻ കഴിയും ഈ ഡെറിവേറ്റീവുകളെല്ലാം തുല്യമായിരിക്കണം അതിനാൽ ഈ പോയിന്റുകളിൽ അവ തുല്യമായിരിക്കണം ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇത് 0 എന്ന് നിർവചിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകും ആയിരിക്കുമ്പോൾ ആ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കണം മറ്റെല്ലാ പോയിന്റുകളിലും തീർച്ചയായും ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂവസ്സായിരിക്കും മൂല്യം തുല്യമായിരിക്കും നമ്മൾ ഇത് വീണ്ടും കണക്കുകൂട്ടേണ്ടതില്ല ഒരാൾക്ക് ഇത് പരിശോധിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് പരിശോധിക്കാൻ കഴിയും ആദ്യം ഭാഗിക ഡെറിവേറ്റീവിനെ y യുമായി ബന്ധപ്പെട്ട് x മായി കണക്കുകൂട്ടണം നമ്മൾക്ക് സമാനമായ പദപ്രയോഗം ലഭിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും അതിനാൽ ഇപ്പോൾ ഇതിന്റെ തുടർച്ച പരിശോധിക്കുന്നതിന് ഈ fyx ന്റെ ഈ ലിമിറ്റ് നമുക്ക് ഇപ്പോൾ എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പ്രത്യേക പാത എടുത്താൽ എന്ത് സംഭവിക്കും ആദ്യം ഇത് മായ്ക്കാം ഇപ്പോൾ എന്ത് സംഭവിക്കും കാരണം ഇവിടെ വച്ചാൽ എന്ത് സംഭവിക്കും നമ്മൾക്ക് ഉണ്ട് എന്നിട്ട് 00 ലേക്ക് അടുക്കാൻ നമുക്ക് x → 0 എന്ന ലിമിറ്റ് എടുക്കാം കാരണം ഈ പാത നമ്മെ 00 ലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ x → 0 ആയിരിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ക്ഷമിക്കണം y → 0 കാരണം നമ്മൾ x മാറ്റിസ്ഥാപിച്ചു ഇപ്പോൾ അതിനാൽ ഇവിടെ ഈ m ഒഴികെയുള്ള എല്ലാം റദ്ദാക്കപ്പെടും നമുക്ക് ലഭിക്കും ഈ പാതയിലൂടെയുള്ള ലിമിറ്റാണിത് അത് പാതയെ ആശ്രയിച്ചിരിക്കുന്നു അതിനർത്ഥം ഈ ലിമിറ്റ് നിലവിലില്ല ഇപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂവസ് അല്ലെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം കണ്ടിന്യൂയിറ്റിക്ക് ഈ ലിമിറ്റ് നിലനിൽക്കണം 0 0 പോയിന്റിൽ ഡെറിവേറ്റീവിലേക്ക് സമീപിക്കണം ഈ സാഹചര്യത്തിൽ ഭാഗിക ഡെറിവേറ്റീവുകൾ fxy അല്ലെങ്കിൽ fyx അവ കണ്ടിന്യൂവസ്സായിരിക്കില്ല കാരണം ഈ മൂല്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചതുപോലെയല്ല ഈ രണ്ട് ഡെറിവേറ്റീവുകളും കണ്ടിന്യൂവസ്സാണെങ്കിൽ മൂല്യവും തുല്യമായിരിക്കണമെന്ന ഫലം നമുക്കറിയാം മൂല്യം 0 0 തുല്യമായിരുന്നില്ല സ്വാഭാവികമായും ഈ ഫംഗ്ഷനുകൾ നിരന്തരമല്ല ഇത് ഇവിടെ നിന്ന് വീണ്ടും വ്യക്തമാണ് നമ്മൾ ഈ fyx എടുത്തത് തുടർന്ന് ഈ പാതയിലൂടെ ലിമിറ്റ് പാതയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അതിനാൽ ലിമിറ്റ് നിലവിലില്ലെന്നും ഫംഗ്ഷൻ കണ്ടിന്യൂവസ് അല്ലെന്നും നമ്മൾ കണ്ടു ലിമിറ്റ് പാതയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇവ രണ്ടും 0 0 കണ്ടിന്യൂവസ്സായിരിക്കില്ല ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായില്ലെങ്കിലും രണ്ടാമത്തെ ഓർഡർ ഭാഗിക ഡെറിവേറ്റീവിന്റെ അസ്തിത്വം അടുത്ത ഉദാഹരണം കാണിക്കുന്നു ഫംഗ്ഷൻ കണ്ടിന്യൂവസ് അല്ല ഭാഗിക ഡെറിവേറ്റീവുകൾ നിലവിലുണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായ ഭാഗിക ഡെറിവേറ്റീവ് നിലവിലില്ല എന്ന ആദ്യ ഓർഡർ ഭാഗിക ഡെറിവേറ്റീവുകൾക്കായി അത്തരം ഫലങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു ഇവിടെയും നമുക്ക് ഉദാഹരണമുണ്ട് രണ്ടാമത്തെ ഓർഡർ ഭാഗിക ഡെറിവേറ്റീവുകൾ നിലവിലുണ്ട് പക്ഷേ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായിരിക്കില്ല നിങ്ങൾ y cos x എന്ന പാത എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂവിറ്റിയുടെ ലിമിറ്റ് കണ്ടെത്താൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക ഇവിടെ x3 തുടർന്ന് y3 x3cos3x ഇത് നമ്മളെ x → 0 y → 0 ന്റെ 00 ലേക്ക് കൊണ്ടുപോകുമെന്ന് ശ്രദ്ധിക്കുക ഈ പാത ശരിയാണ് ഇത് നമ്മളെ 00 ലേക്ക് കൊണ്ടുപോകുന്നു കൂടാതെ ഈ പ്രത്യേക പാതയിലൂടെ y x cos x x y 00 ആയി നമ്മൾ ലിമിറ്റ് പരിശോധിക്കുന്നു ഈ x cosx ന് പകരമായി നമുക്ക് x - x cos x ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ലിമിറ്റ് എന്താണ് ഈ x റദ്ദാക്കപ്പെടും അതിനുശേഷം നമ്മൾ ലിമിറ്റ് x → 0 ആയി എടുക്കും ഈ സാഹചര്യത്തിൽ 00 ഫോമുകൾ നമ്മൾ ലാപിതാളിന്റെ നിയമം L'Hospital's rule ഉപയോഗിക്കേണ്ടതുണ്ട് ഇത് ഇപ്പോൾ ഇവിടെ ലിമിറ്റ് ആയിരിക്കും അതിനാൽ എന്നാൽ ഇത് 0 ബൈ 0 ഫോം ആണെന്ന് നമ്മൾ വീണ്ടും കാണുന്നു എൽ ഹോസ്പിറ്റലിന്റെ നിയമം വീണ്ടും പ്രയോഗിക്കേണ്ടതുണ്ട് ഇവിടെ നമുക്ക് ലഭിക്കും x ഇല്ലാതെ 2 ഈ സാഹചര്യത്തിലും നമുക്ക് x ഇല്ലാതെ 2 ഉണ്ടാകും ഇവിടെ ഈ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് നിയമം cos3x ബാക്കിയുള്ളവയിൽ x ദൃശ്യമാകും x യുമായുള്ള നിബന്ധനകൾ തുടർന്ന് നമുക്ക് ഇവിടെ cos x ഉണ്ട് ഇപ്പോൾ ഈ ലിമിറ്റ് എടുത്താൽ ഇത് 1 ഉം ഇവിടെയുമാണ് ഈ ലിമിറ്റ് 4 ആണ് X y എന്നതിന്റെ ലിമിറ്റ് 00 4 ആണെന്നും 0 അല്ലെന്നും ഇപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ ഫംഗ്ഷൻ മൂല്യം 0 ആണ് എന്നാൽ ഈ പ്രത്യേക പാതയിലൂടെ മൂല്യം 4 ആണ് തീർച്ചയായും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായിരിക്കില്ല ഒരാൾക്ക് മറ്റെന്തെങ്കിലും പാതയിലൂടെ പോകാനും ലിമിറ്റ് വ്യത്യസ്തമാണെന്ന് കാണിക്കാനും കഴിയും ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ എടുത്താൽ y എന്നത് 2 x ന് തുല്യമാണെങ്കിൽ ഈ ലിമിറ്റ് വ്യത്യസ്തമാണെന്ന് വീണ്ടും കാണാം x 0 ലേക്ക് പോയി ഈ പാതയിലൂടെ നമ്മൾ ഈ x ക്യൂബ് എടുത്തിട്ടുണ്ടെങ്കിൽ y 2 x ആണ് 8 x ക്യൂബാണ് തുടർന്ന് ഇവിടെ നമുക്ക് മൈനസ് x ഉം മൈനസ് 2 x ഉം ഉണ്ട് മൈനസ് x ഉം ഇത് 0 ഉം ആയിത്തീരും നമുക്ക് 2 വ്യത്യസ്ത പാതയുണ്ട് ഒന്ന് y എന്നത് x കോസക്സിന് തുല്യമാണ് മറ്റൊന്ന് y എന്നത് 2 x ന് തുല്യമാണ് ഇവിടെ ലിമിറ്റ് 0 ആണ് ലിമിറ്റ് 4 ആയിരുന്നു ലിമിറ്റ് നിലവിലില്ലെന്ന് നിഗമനം ഏതായാലും ഇവിടെ ഫംഗ്ഷന്റെ മൂല്യം 4 ആണ് ഈ പാതയിലൂടെ മൂല്യം 4 ആണെന്ന് നമ്മൾ ഇതിനകം കണ്ടു ഫംഗ്ഷൻ കണ്ടിന്യൂവസ് അല്ലെന്ന് അവിടെത്തന്നെ നമുക്ക് നിഗമനം ചെയ്യാം ഈ സാഹചര്യത്തിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായിരിക്കില്ല എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് 0 0 ന് fxx നെ വിലയിരുത്താൻ കഴിയും നിർവചനം അനുസരിച്ച് fx0 0 നമ്മൾ നിരവധി തവണ ഉപയോഗിച്ച പതിവ് നിർവചനം ഈ ഫംഗ്ഷൻ എന്താണെന്ന് ഇവിടെ വീണ്ടും കാണണം എന്താണെന്ന് നമ്മൾ കാണണം ഇവിടെയും f ന്റെയും ഡെറിവേറ്റീവ് കാരണം ഇത് Δx → 0 എന്ന ലിമിറ്റായിരിക്കും ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം ഡെൽറ്റ x ഇതിനകം തന്നെ ഉണ്ട് നമുക്ക് x0 എന്ന പൊതു പോയിന്റിൽ ഈ fx കണക്കുകൂട്ടാം ഇതിനുപകരം നമ്മൾ ഇപ്പോൾ ഇവിടെ എന്നതിനുപകരം തിരഞ്ഞെടുക്കും പിന്നീട് ഈ പോയിന്റിനായി Δx 0 പകരം വയ്ക്കും ഏത് പൊതു പോയിന്റിലും x0 നമ്മൾ ഡെറിവേറ്റീവ് കണക്കുകൂട്ടുന്നു അതിനാൽ കാരണം ആദ്യത്തെ ആർഗ്യുമെന്റിൽ 0 ഉം മൈനസ് f x 0 ഉം ക്ഷമിക്കണം തുടർന്ന് നമ്മൾക്ക് Δx ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇത് ആയിത്തീരും കാരണം രണ്ടാമത്തെ ആർഗ്യുമെന്റ് 0 ആണ് നമുക്ക് y സ്ക്വയർ ഉണ്ടായിരിക്കില്ല അതിനർത്ഥം ഇത് മാറും ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ഫലം 2x ആയി ലഭിക്കും ഇത് 2x ഉം fx ഉം 0 0 ഇത് 0 ആയി വരുമെന്ന് കണക്കുകൂട്ടാൻ വളരെ എളുപ്പമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത് 2 തവണയുണ്ട് ഇപ്പോൾ ഫലം fx പോയിന്റിൽ x 0 2x ആണ് ഇവിടെ Δx ഉണ്ട് അതിനാൽ ഈ ഫംഗ്ഷന്റെ x നോടനുബന്ധിച്ച് രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് കണ്ടത് 2 ആണ് ഇപ്പോൾ മുമ്പ് ചെയ്തതുപോലെ y യുമായി ഡെറിവേറ്റീവ് കണക്കാക്കാം ഇപ്പോൾ നമ്മൾ ഈ മുമ്പത്തെപ്പോലെ കണക്കുകൂട്ടണം ഈ ചിഹ്നം കാരണം ഇവിടെ 1 മൈനസ് ദൃശ്യമാകും ഈ കേസിൽ നമുക്ക് 2y ലഭിക്കും അതിനാൽ ഇപ്പോൾ ഈ fyy y യുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് ആയിരിക്കും

ഈ പ്രത്യേക സാഹചര്യത്തിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായിരുന്നില്ലെന്ന് നമ്മൾ കണ്ടു പക്ഷേ നമുക്ക് രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട് ആദ്യ ഓർഡർ മാത്രമല്ല രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവുകളുടെ അസ്തിത്വമുണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ നിഗമനമെന്താണ് ഉയർന്ന ഓർഡറിന്റെ ഭാഗിക ഓർഡർ ഡെറിവേറ്റീവ് ഇപ്പോൾ പഠിച്ചു ഭാഗിക ഡെറിവേറ്റീവിന്റെ കണ്ടിന്യൂവസ് ഈ രണ്ട് മിശ്രിത ഓർഡർ ഭാഗിക ഡെറിവേറ്റീവുകൾ തുല്യമാണെന്ന് ഉറപ്പാക്കാൻ പര്യാപ്തമാണെന്നും നമ്മൾ കണ്ടു അല്ലെങ്കിൽ അവ തുല്യമല്ലെങ്കിൽ അതിനർത്ഥം ഈ ഭാഗിക മിശ്രിത ഭാഗിക ഓർഡർ ഡെറിവേറ്റീവുകൾ ആ സാഹചര്യത്തിൽ കണ്ടിന്യൂവസ്സായിരിക്കില്ല എന്നാണ് ഈ പ്രഭാഷണം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റഫറൻസുകളാണ് ഇവ വളരെയധികം നന്ദി